നമസ്കാരം നമുക്ക് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൻറെ അവലോകനത്തെ കുറിച്ചുള്ള ചർച്ച തുടരാം അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഈ പ്രത്യേക സ്ലൈഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ എല്ലാം പരാജയം ആകും പക്ഷേ ഇവിടെ അങ്ങനെ ആണെങ്കിൽ പോലും ഇത് പ്രവർത്തിക്കുന്നവ ആയിരിക്കും പരാജയപ്പെട്ട നോഡുകളുടെതു വികസിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇവിടെ ധാരാളം ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷനുകളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല ഇപ്പോഴും ധാരാളം ആപ്ലിക്കേഷനുകൾ വരാനായി കൂടുതൽ പ്രചോദനങ്ങൾ ഉണ്ടാവും സാധാരണയായി ക്ലൈൻറ്റ്സ് ആയിരിക്കും പക്ഷേ അവയെല്ലാം അടിസ്ഥാനപരമായി ഒരു പ്രത്യേക ജോലി തിരിച്ചറിയാൻ ശ്രമിക്കുന്നവയാവും പിയർ പ്രോസസ്സുകളെ

ഗ്രിഡ് കമ്പ്യൂട്ടിംഗിൻറെ തടസ്സമില്ലാത്ത പ്രവേശനം നൽകുന്നു ഇത് മറ്റൊരു രീതിയിൽ നോക്കിക്കാണാം അതിനർത്ഥം എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആവശ്യമുണ്ട് അവയിൽ എൻറെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉള്ള വിഭവങ്ങൾ ഉണ്ടാവണം ഇവയാണ് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് മുഴുവനും ലഭ്യമാകുന്ന വിഭവങ്ങൾ എനിക്ക് ഉണ്ടാവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു പൊതുവായ കാര്യം അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അനുഭവിച്ചറിയുന്ന ഒരു കാര്യം ഇലക്ട്രിക്കൽ ഗ്രിഡ് ഇവ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് അറിയാതെ തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിനർത്ഥം എനിക്ക് വിഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് എനിക്ക് കമ്പ്യൂട്ടർ ഗ്രിഡിൽ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ ലഭ്യമാക്കും അപ്പോൾ ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഉപഭോക്താവിൻറെ ചിന്താഗതിയിൽ നിന്ന് എന്താണ് ആവശ്യം ഈ ഗ്രൂപ്പിനെ ചെയ്യാനുള്ള സംവിധാനം ഇനി ഗ്രിഡ് കമ്പ്യൂട്ടിംഗിൻറെ ആയി ഉപയോഗിക്കാം അപ്പോൾ എൻറെ PC ഒരു 100 PCകളുടെ കൂട്ടം ആവും എങ്കിലും എല്ലാം നല്ലതായി നടക്കും മറ്റൊരു മിഡിൽവേർ കൂടി നൽകുന്നുണ്ട് ആ കാര്യങ്ങളും ഇതിൽ ലഭ്യമാണ് അപ്പോൾ മറ്റൊരു അർത്ഥത്തിൽ വാങ്ങുകയോ ഇൻസ്റ്റോൾ ഉണ്ട് എന്നാണ് മറ്റേ അറ്റത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് വിഭവങ്ങൾ ഇവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതായത് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത്ര പൈസയാണ് നിങ്ങൾ നൽകേണ്ടത് എന്ന് പറയാം പക്ഷേ ഞാൻ അതിന് തയ്യാറായി എന്ന് വരില്ല എങ്ങനെയാണ് നിങ്ങൾ വിഭവങ്ങളെ പരിപാലിക്കുന്നത് എന്തൊക്കെയാണ് സേവനങ്ങൾ എന്നൊക്കെയുള്ള നിസ്സാര കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗിൻറെ മറ്റൊരു ചുവടുവെപ്പാണ് ആരാണ് ഗ്രിഡ് ആവശ്യമായി വരാം വ്യത്യസ്ത തരത്തിലുള്ള ഗ്രിഡുകൾ സംഭരണം ആയാണ് സേവനം നൽകുന്നത് ഒരെണ്ണം കൊളാബറേറ്റീവ് ഗ്രിഡ് എന്ന് പറയുന്നത് ഇതിൽ പല വ്യത്യസ്ത കളിക്കാർ ഉണ്ടാവാം തീർച്ചയായും ഗ്രിഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പ്രധാനമുള്ള കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എന്നിവയും അറിയണം കമ്പ്യൂട്ടിങ്ങിലെ ഒരു തരത്തിലുള്ള പാരലൽ ആവാം അപ്പോൾ ഇവയാണു ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിലെ വ്യത്യസ്ത ഘടകങ്ങൾ

ഒരു കമ്പ്യൂട്ടറിന് ഉള്ളതും ആവും

ഇവിടെ ധാരാളം തരത്തിലുള്ള ക്ലസ്റ്ററുകൾ ആണ് ഇത് കൂടാതെ ഉള്ളതാണ് പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ് ക്ലസ്റ്റർ ഉണ്ട് ഒരു സാധാരണ ക്ലസ്റ്റർ സവിശേഷതകളും ഉണ്ട് ഉദാഹരണത്തിന് എങ്ങനെയാണ് ഇവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ആണ് ഇവിടെ ഉള്ളത് മുതലായവ ധാരാളം പ്രവർത്തനക്ഷമമായ പ്രയോജനങ്ങളുണ്ട് അതിലൊന്ന് സിസ്റ്റത്തിൻറെ പോലുളള കാരൃങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്താണ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിങ് ആവാം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല എനിക്ക് ഒരു യൂട്ടിലിറ്റി ലഭ്യമാക്കാൻ ശ്രമിക്കും ഈ വിഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കുക എന്നുള്ള നിസാര കാര്യങ്ങൾ ഉപഭോക്താവിനെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ അതുപോലുള്ള കാര്യങ്ങൾ ആവും ഇപ്പോൾ ഈ പവർ സേവന ദാതാവ് 1 ആണോ എന്നെ മറ്റൊരാളുമായി ബന്ധിപ്പിക്കാൻ ആയി ഞാൻ വേറെ ഏതെങ്കിലും മൊബൈൽ സേവനദാതാവിനെ ഉപയോഗിക്കുന്നുണ്ടോ മുതലായവ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല എനിക്ക് ആവശ്യം ഉള്ളത് കോൾ പിന്നീട് ഇതിലേക്കും പണരിണമിക്കുകപെട്ടതാണ് ഇതൊരു നല്ലൊരു ചിത്രമാണ് നല്ലൊരു സാമ്യം ഉദാഹരണത്തിന് ഇവിടെ വ്യത്യസ്ത IT വിഭവങ്ങൾ ഉണ്ടെന്ന് അനുമാനിക്കാം ഞാൻ ഇപ്പോൾ ആ ടാപ്പ് ആവാം ഉദാഹരണത്തിന് പവർ ചെയ്യാൻ കഴിയും അതിനുവേണ്ടി എനിക്ക് കാശ് കൊടുക്കാം അത് ഉപയോഗിക്കണ്ട എന്നുള്ള സമയത്ത് എനിക്കത് അടക്കുകയും ചെയ്യാം അത് പോലെ കമ്പ്യൂട്ടിംഗും ആവാം പക്ഷേ ആ വിഭവങ്ങൾ അവിടെയുണ്ട് അതിനുവേണ്ടി ഞാൻ കാശ് കൊടുക്കണം ഞാൻ മുഴുവൻ കാര്യത്തിനുവേണ്ടിയാണ് കാശ് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ഇതിനെ നോക്കിക്കാണുന്ന മറ്റൊരു രീതിയും ഉണ്ട് അപ്പോൾ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് പ്രവർത്തിപ്പിക്കണം ഏത് വിപുലീകരണവും ഉപയോഗിക്കാൻ ഞാനാഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന് ഞാൻ കാശ് കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവിടെയുള്ളത് വളരെ അധികം വലിയ സംഭരണശേഷിയുള്ളവ ആയിരിക്കും

അപ്പോൾ എനിക്ക് ഈ തരത്തിലുള്ള സൈബർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻറെ മറ്റൊരു സ്വഭാവം ഒരു ദാതാവ് അല്ലെങ്കിൽ സേവനദാതാവ് ഉണ്ട് ഒരു കൺസ്യൂമർ ആയിരിക്കും നോക്കേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ സന്ദേശങ്ങൾ അയക്കുന്നതിൽ ആയിരിക്കും അത് അവർ തനിയെ ചെയ്യേണ്ടിവരും അതാണ് അവിടെയുള്ള പ്രൈസിങ് മുതലായവയും സുരക്ഷിതത്വത്തിൻറെ സ്വഭാവവും കൂടി അവിടെ നോക്കേണ്ടിവരും ആപ്ലിക്കേഷൻ വലിപ്പം മാറ്റാൻ എനിക്ക് കഴിയണം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിപരീതവും ആകാം വ്യത്യസ്ത തരത്തിലുള്ള പെയ്മെൻറ് മാതൃകകൾ ആവാം എനിക്ക് ഇഷ്ടാനുസൃതമാക്കിയ കാര്യങ്ങൾ ചെയ്യാനാകും ധാരാളം അപകടസാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം യൂണിറ്റി കമ്പ്യൂട്ടിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സേവനദാതാവ് തന്നെ വിപണിയിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഡേറ്റയുടെ ആയി പരിണമിക്കുന്നത് ക്രമീകരിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ പങ്കിടുന്ന പൂളിൽ ചെയ്യാനും കഴിയും അപ്പോൾ രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പശ്ചാത്തല കമ്പ്യൂട്ടിംഗ് ഒരു സേവനം എന്ന നിലയിൽ ലഭ്യമാക്കാനും കഴിയും ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റ് വ്യത്യസ്ത സ്വഭാവങ്ങളും ആയി നമുക്ക് തുടരാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്ത വസ്തുക്കളും ചിത്രങ്ങളും വിവിധ വിഭവങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് റഫറൻസുകൾ ആവശ്യങ്ങൾക്ക് മാത്രം ആണ് ഉപയോഗിക്കുന്നത് എന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം വരുന്ന പ്രഭാഷണങ്ങളിൽ നമുക്ക് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൻറെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ച് നോക്കാം എന്തൊക്കെയാണ് വ്യത്യസ്തത സവിശേഷതകൾപ്രയോജനങ്ങൾ പോരായ്മകൾ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം നന്ദി